ഏവർക്കും സ്വാഗതം ഊർജ്ജ സംരക്ഷണവും പാഴാക്കപ്പെടുന്ന താപത്തിൻ്റെ വീണ്ടെടുക്കലും അഥവാ എനർജി കൺസർവഷൻ ആൻഡ് വേസ്റ്റ് ഹീറ്റ് റിക്കവറി എന്ന കോഴ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി നാം കടക്കുകയാണ് നമുക്ക് സ്റ്റീം പവർ പ്ലാൻ്റുകളെ കുറിച്ചുള്ള നമ്മുടെ ചർച്ച തുടരാം റീജനറേറ്റീവ് ഫീഡ് ഹീറ്റിംഗ് ഉള്ള ഒരു സ്റ്റീം പവർ പ്ലാൻ്റിൻ്റെ ഒരു ഉദാഹരണം എടുത്ത് വിശദീകരിക്കാം ലളിതമായി മനസ്സിലാക്കുന്നതിനായി നാം ഇവിടെ തിരഞ്ഞെടുക്കുവാൻ പോകുന്ന ഉദാഹരണം ഒരേയൊരു ഓപ്പൺ ഫീഡ് വാട്ടർ ഹീറ്റർ ഉള്ള റീജനറേറ്റീവ് ഫീഡ് ഹീറ്റിംഗ് ആണ് ഉദാഹരണമായി നാം തിരഞ്ഞെടുത്ത പ്രശ്നം ഈ സ്ലൈഡിൽ നൽകിയിട്ടുണ്ട് ഒരേയൊരു ഓപ്പൺ ഫീഡ് വാട്ടർ ഹീറ്റർ ഉള്ള മാതൃകാപരമായ ഒരു റീജനറേറ്റീവ് റാങ്കിൻ സൈക്കിളിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റീം പവർ പ്ലാൻ്റ് ഉണ്ട് ടർബൈനിൻ്റെ ഇൻലെറ്റിലെ അവസ്ഥകൾ എന്നത് 10 മെഗാപാസ്ക്കൽ മർദ്ദവും 650 ഡിഗ്രി സെൽഷ്യസ് താപനിലയും ആണ് കണ്ടൻസറിലെ മർദ്ദം എന്നത് 10 മെഗാപാസ്ക്കൽ ആണ് ബ്ലീഡിംഗ് സംഭവിക്കുന്നത് രണ്ടു മെഗാപാസ്ക്കൽ മർദ്ദത്തിൽ ആണ് എങ്കിൽ ടർബൈനിലൂടെ ഉള്ള ആകെ ഒഴുക്കിൻ്റെ എത്ര ഭാഗമാണ് എന്ന് കണക്കാക്കണം അതായത് ബ്ലീഡ് ചെയ്യപ്പെട്ടതും താപ കാര്യക്ഷമതയും അതിനാൽ ഈ രണ്ടു പ്രശ്നങ്ങളും ഞാൻ ഇവിടെ ഒന്നുകൂടി എടുത്തുപറയാം അതായത് ഇതിന് മുൻപ് നാം കണ്ട പ്രശ്നവും ഈയൊരു പ്രശ്നവും എടുത്തിരിക്കുന്നത് സുബ്രതാ ഭട്ടാചാര്യ എഴുതി പിയേഴ്സൺ 2015 ൽ പ്രസിദ്ധീകരിച്ച തെർമ്മോഡൈനാമിക്സ് ആൻഡ് ആൻ ഇൻ്ററാക്റ്റീവ് അപ്പ്രോച്ച് എന്ന പുസ്തകത്തിൽ നിന്നുമാണ് നാം ഈ സെക്കിളിൻ്റെ ഡയഗ്രത്തിലേക്ക് പോകുകയാണെങ്കിൽ അത് ഇവിടെ നൽകിയിട്ടുണ്ട് പ്രോബ്ലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ സ്റ്റേറ്റ് പോയിൻ്റുകൾ തന്നെയാണ് നാം ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള സംഖ്യകൾ എല്ലാം തന്നെ പ്രോബ്ലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ സംഖ്യകൾ തന്നെയാണ് ഇനി നാം സ്റ്റേറ്റ് പോയിൻ്റ് എന്നതിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ പോയിൻ്റിൽ മർദ്ദവും താപനിലയും നൽകിയിട്ടുണ്ട് അതിൽ നിന്നും നമുക്ക് എൻതാൽപ്പി എത്രയെന്ന് കണക്കാക്കാം രണ്ടാമത്തെ സ്റ്റേറ്റിൽ അവിടെ ഒരു മാതൃകാപരമായ റാങ്കിൻ സൈക്കിളിനെ നാം പരിഗണിച്ചിരിക്കുന്നു അതിനാൽ രണ്ടാമത്തെ സ്റ്റേറ്റ് വരെയുള്ള വികാസം എന്നത് മുഴുവൻ അളവു നീരാവിയും ടർബൈനിലൂടെ പ്രവഹിക്കുന്നതു വരെ ഉള്ളത് എന്നാണ് അതിനാൽ ഇത് ഒരു റിവേഴ്സിബിൾ അഡിയ ബാറ്റിക് പ്രക്രിയ ആണ് അതിനാൽ എസ്2 എന്നത് എസ്1 എന്നതിന് സമമാണ് അതിനാൽ ഇവിടെ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ് പോയിൻ്റ് അറിയാവുന്നത് ആകയാൽ നമുക്ക് എൻതാൽപ്പി എത്രയെന്ന് കണക്കാക്കുവാൻ സാധിക്കും അതിൻ്റെ മൂല്യം നമുക്ക് തുടർന്നുള്ള കണക്കുകൂട്ടലുകളിൽ ആവശ്യമായി വരും കൂടാതെ എൻട്രോപ്പി എന്നതും കണക്കാക്കുവാൻ നമുക്കു സാധിക്കും രണ്ടാമത്തെ സ്റ്റേറ്റ് പോയിൻ്റിലും എൻട്രോപ്പിക്ക് ഇതേ മൂല്യം തന്നെ ആയിരിക്കും അതിനാൽ അവിടെ നിന്നും മർദ്ദം എന്നതും ലഭ്യമാകും അതിനാൽ നീരാവിയുടെ അവസ്ഥ എന്നതിനെപ്പറ്റി പൂർണ്ണമായും നമുക്ക് അറിവുണ്ടാകും എന്നാണ് ഞാൻ അർത്ഥമാക്കിയത് അതിനാൽ നമുക്ക് ഇതിൻ്റെ എൻതാൽപ്പി കണക്കാക്കുവാൻ സാധിക്കും ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ് പോയിൻ്റിലേക്ക് നീങ്ങാം മൂന്നാമത്തെ സ്റ്റേറ്റ് പോയിൻ്റിൽ അതായത് കണ്ടൻസറിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കണ്ടൻസറിലെ മർദ്ദത്തിൻ്റെ അവസ്ഥ എന്തെന്ന് നമുക്ക് അറിയാം അതിനാൽ പി 3 എത്രയെന്ന് അറിയാം മാത്രമല്ല എസ്3 എന്നത് എസ്1 എന്നതിന് തുല്യമാണ് കാരണം നാം ഇവിടെ പിൻതുടരുന്നത് ഒരു റിവേഴ്സിബിൾ അഡിയ ബാറ്റിക്ക് എക്സ്പാൻഷൻ പ്രകിയയെ ആണല്ലോ അതിനാൽ നമുക്ക് എൻതാൽപ്പി എത്ര എന്ന് അറിയാം അതായത് ഒന്നാമത്തേയും രണ്ടാമത്തേയും മൂന്നാമത്തേയും പോയിൻ്റുകളിലെ Point 1 point 2 Point 3 എൻതാൽപ്പികൾ അറിയാം ഇത് അർത്ഥമാക്കുന്നത് ഞാൻ മുമ്പു കാട്ടിത്തന്ന സൈക്കിൾ ഡയഗ്രത്തെ ഈ എക്സ്പാൻഷൻ ലൈനിൽ ഉടനീളം റഫർ ചെയ്യുക ആണെങ്കിൽ എന്നാണ് അതിനാൽ ടർബൈനിൻ്റെ എക്സ്പാൻഷൻ ലൈനിൽ ഉടനീളം വിവിധ പോയിൻ്റുകളിൽ ഉള്ള എൻതാൽപ്പി മൂല്യങ്ങളെ നമുക്ക് അറിയുവാൻ സാധിക്കും ഇനി നമുക്ക് നാലാമത്തെ പോയിൻ്റിലേക്ക് നീങ്ങാം എന്താണ് പോയിൻ്റ് നമ്പർ 4 നമുക്ക് ഇപ്പോൾ സൈക്കിൾ ഡയഗ്രത്തിലേക്ക് ഒരു തവണ തിരികെ പോകാം അതിനാൽ അവസ്ഥകളെപ്പറ്റിയുള്ള വിവരം തന്നിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻതാൽപ്പി എത്രയെന്ന് കണക്കാക്കാനും സാധിക്കും കൂടാതെ ഈ എൻട്രോപ്പിക്ക് മാറ്റമില്ല കൂടാതെ മർദ്ദം അറിയുകയും ചെയ്യാം അതിനാൽ ഇവിടെയുള്ള എൻതാൽപ്പിയും നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും ഈ കണ്ടൻസറിൻ്റെ മർദ്ദവും തന്നിട്ടുണ്ട് അതിനാൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് എന്താണ് നമുക്ക് ഒന്നാമത്തെ പോയിൻ്റിലും മൂന്നാമത്തെ പോയിൻ്റിലും ഉള്ള എൻട്രോപ്പി തുല്യമാണെന്ന് പറയാം അതിനാൽ ഈ എൻതാൽപ്പി നമുക്ക് കണക്കാക്കാൻ സാധിക്കും കൂടാതെ ഈ സ്റ്റേറ്റ് പോയിൻ്റിനെ പൂർണ്ണമായും അറിയുകയും ചെയ്യാം അതിനാൽ മൂന്നാമത്തെ പോയിൻ്റിൽ നിന്നും നാലാമത്തെ പോയിൻ്റിലേക്കു നീങ്ങുമ്പോൾ അവിടെ ഇത് പൂർണ്ണമായും ദ്രാവകം ആയിരിക്കും കൂടാതെ പൂർണ്ണമായും ദ്രാവകം ആയ അവസ്ഥയിലെ എൻതാൽപ്പി നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും അതിനാൽ അതും നമുക്ക് അറിയാം ഞാൻ മുമ്പ് പറഞ്ഞതു പോലെ പമ്പിൻ്റെ പ്രവൃത്തിയും നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും കൂടാതെ അഞ്ചാമത്തെ പോയിൻ്റിലെ എൻതാൽപ്പി നിശ്ചയിക്കുവാൻ നമുക്ക് കഴിയും അതിനാൽ നമുക്ക് അല്പം പിന്നിലേക്ക് പോകാം ഇതായിരിക്കും ഉത്തരം അതിനാൽ ഇതാണ് അഞ്ചാമത്തെ പോയിൻ്റിലെ കണ്ടൻസറിൻ്റെ മർദ്ദം ഇതിനെ പി5 എന്നു രേഖപ്പെടുത്താം ഇതിൻ്റെ മൂല്യം നമുക്ക് അറിയാം ഇനി എസ്5 എന്നതിനെ നോക്കാം ഇത് അഞ്ചാമത്തെ പോയിൻ്റിൽ ആണ് ഒരിക്കൽ കൂടി നോക്കാം രണ്ടാമത്തെ പോയിൻ്റിനെ അഞ്ചാമത്തെ പോയിൻ്റുമായി തുല്യമാക്കിയിരിക്കുന്നതായി കാണാം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഓപ്പൺ ഫീഡ് വാട്ടർ ഹീറ്ററിലേക്ക് ഇത് പോകണമെന്നുണ്ടെങ്കിൽ നാം നീരാവിയെ വേർതിരിച്ചെടുക്കുന്ന മർദ്ദത്തിൻ്റെ അതേ നിലയിലേക്ക് കണ്ടൻസേറ്റിൻ്റെ മർദ്ദവും കൂടി ഉയർത്തേണ്ടതുണ്ട് അപ്രകാരം ചെയ്തില്ലെങ്കിൽ അതിന് ഇവിടേക്കു പോകാൻ കഴിയില്ല അതിനാൽ ഈ മർദ്ദം നമുക്ക് അറിയാവുന്നതാണ് ഈ മർദ്ദം എന്നത് രണ്ടാമത്തെ പോയിൻ്റിലെ മർദ്ദത്തിനു സമമാണ് അതിനാൽ ഒന്നാമത്തെ പമ്പിൽ അതായത് പി1 ൽ നാം മർദ്ദത്തെ നാലാമത്തെ പോയിൻ്റിൽ ഉള്ളതിൽ നിന്നും അഞ്ചാമത്തെ പോയിൻ്റിലുള്ളതിലേക്ക് ഉയർത്തുന്നു അതിനു ശേഷം അത് ഒരു മിക്സിംഗ് ചേമ്പറിലേക്ക് പോകുന്നു അതിനാൽ അഞ്ചാമത്തെ പോയിൻ്റിലുള്ള മർദ്ദം രണ്ടാമത്തെ പോയിൻ്റിലുള്ള മർദ്ദത്തിന് സമാനമായതിനാൽ പമ്പിൻ്റെ പ്രവൃത്തിയും അഞ്ചാമത്തെ പോയിൻ്റിലുള്ള എൻതാൽപ്പിയും കണക്കാക്കുവാൻ നമുക്ക് സാധിക്കുന്നു പി 5 എന്നതിനെ പി2 നോട് തുല്യമാക്കിയതിലൂടെ അതു തന്നെയാണ് നാം ചെയ്തത് ഇതൊരു അഡിയബാറ്റിക് അതായത് റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രക്രിയ ആണ് ഇതിന് മുമ്പുള്ള പ്രശ്നത്തിൽ ഞാൻ വിശദീകരിച്ചതുപോലെ അതേ മാർഗ്ഗത്തിലൂടെ നമുക്ക് പമ്പിൻ്റെ പ്രവൃത്തി കാരണമുള്ള എൻതാൽപ്പിയിൽ വരുന്ന മാറ്റത്തെ എന്നതിനെ കണക്കാക്കുവാൻ സാധിക്കും അതിനാൽ എച്ച്4 എന്നതുമായി പമ്പിൻ്റെ പ്രവൃത്തി കാരണമുള്ള എൻതാൽപ്പി കൂടി കൂട്ടുമ്പോൾ എച്ച് 5 ലഭിക്കുന്നു അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ പോയിൻ്റിലുള്ള എൻതാൽപ്പി എത്രയെന്നു കണക്കാക്കുവാൻ സാധിക്കുന്നു ഇനി ആറാമത്തെ പോയിൻ്റ് എവിടെ ആണെന്ന് നമുക്ക് നോക്കാം ആറാമത്തെ പോയിൻ്റ് എന്നത് ഓപ്പൺ ഫീഡ് വാട്ടർ ഹീറ്ററിൻ്റെ പുറത്തേക്കു കടക്കുന്ന ഭാഗത്താണ് അതിനാൽ ഇപ്പോൾ ഈ ഫീഡ് വാട്ടർ ഹീറ്ററിനു വേണ്ടി നാം ചില തരം എനർജി ബാലൻസ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് ഇത് ഞാൻ മുമ്പ് എഴുതിയിട്ടുള്ളതാണ് അതായത് രണ്ടാമത്തെ പോയിൻ്റിലുള്ള എൻതാൽപ്പിയോടു കൂടിയ നീരാവി ഓപ്പൺ ഫീഡ് വാട്ടർ ഹീറ്ററിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് അഞ്ചാമത്തെ പോയിൻ്റിലുള്ള എൻതാൽപ്പിയോടു കൂടിയ കണ്ടൻസേറ്റ് ഓപ്പൺ ഫീഡ് വാട്ടർ ഹീറ്ററിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കൂടാതെ ഫീഡ് വാട്ടർ ഹീറ്ററിൽ നിന്നും പുറത്തേക്കുവരുന്ന ദ്രാവക രൂപത്തിലുള്ള ജലം എന്നത് പൂർണ്ണമായും ദ്രാവകത്തിൻ്റെ അവസ്ഥയിൽ ആയിരിക്കും അതിനാൽ ഇപ്പോൾ നമുക്ക് ഞാൻ എഴുതിയിരുന്നതു പോലെ എനർജി ബാലൻസ് ഉണ്ടാക്കുവാൻ കഴിയും അതിനാൽ ആത്യന്തികമായി നമുക്ക് എന്താണ് കിട്ടുക നമുക്ക് ലഭിക്കുന്നത് ആറാമത്തെ പോയിൻ്റിൽ ഉള്ള അവസ്ഥ ആണ് അതായത് എക്സ് എന്നത് പൂജ്യം ആയിരിക്കുന്ന അവസ്ഥ ഇവിടെ ഇത് പൂർണ്ണമായും ദ്രാവക അവസ്ഥയിൽ ആയിരിക്കും മർദ്ദം എന്നത് വേർതിരിച്ചെടുക്കപ്പെടുന്ന നീരാവിയുടെ അഥവാ ബ്ലീഡ് സ്റ്റീമിൻ്റെ മർദ്ദം തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് ലഭിക്കുന്ന എൻതാൽപ്പി എന്നത് കിലോ ഗ്രാമിന് 908 8 കിലോ ജൂൾ 908 8 kJkg ആയിരിക്കും അപ്പോൾ വീണ്ടും നാം പി 2 എന്ന മറ്റൊരു പമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് പി 2 എന്നതിനെ നാം ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ അകത്തേക്ക് കടക്കുന്ന ഭാഗത്തുള്ള മർദ്ദമായ ആയ പി 2 എന്നത് പി6 നോട് സമമാണ് അഥവാ രണ്ടാമത്തെ പമ്പിനോട് സമമാണ് അതിനാൽ അകത്തേക്ക് കടക്കുന്ന ഭാഗത്തുള്ള മർദ്ദം എന്നത് പി6 ഉം പുറത്തേക്ക് കടക്കുന്ന ഭാഗത്തെ മർദ്ദം എന്നത് ബോയിലറിൻ്റെ മർദ്ദത്തിന് തുല്യവും ആയിരിക്കും പി7 എന്നത് മറ്റൊന്നുമല്ല ബോയിലറിൻ്റെ മർദ്ദം തന്നെയാണ് വീണ്ടും നമുക്ക് അനുമാനിക്കാവുന്ന കാര്യം എന്നത് പമ്പിൻ്റെ ഉള്ളിൽ നടക്കുന്ന ചുരുക്കുന്ന പ്രവർത്തനം എന്നത് ഒരു റിവേഴ്സിബിൾ അഡിയ ബാറ്റിക് പ്രകിയ ആണ് എന്നുള്ളതാണ് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതായത് അല്പമൊന്ന് പിന്നിലേക്ക് നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഏഴാമത്തെ പോയിൻ്റ് മുതൽ ഇത്രയധികം ചൂടാക്കുന്ന പ്രവർത്തനം ബോയിലറിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യപ്പെടും എന്ന് ഇതാണ് ബോയിലറിൻ്റെ ഇക്കോണമൈസർ ഭാഗം ബോയിലറിൻ്റെ ഇക്കോണമൈസർ ഭാഗത്തെ ഒഴിച്ചു നിർത്തിയാൽ അതിന് ശേഷമുള്ള ഭാഗത്ത് ബാഷ്പീകരണവും സൂപ്പർ ഹീറ്റിംഗും ഉണ്ടാകും അതിനാൽ ബോയിലറിൽ നൽകപ്പെടുന്ന താപത്തിൻ്റെ അളവ് അത് എച്ച് 1 ൽ നിന്നും എച്ച് 7 കുറയ്ക്കുന്നതിന് തുല്യമാണ് അത് നമുക്ക് നൽകുന്നത് ഇന്ധനത്തിൽ നിന്ന് ബോയിലറിലെ പ്രവർത്തന ദ്രാവകത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ചൂടിൻ്റെ അളവാണ് ശരിയല്ലേ അതിനാൽ അപ്പോൾ നമുക്ക് പി 7 ലഭിച്ചു കഴിഞ്ഞു കൂടാതെ നമുക്ക് എൻതാൽപ്പി എത്രയെന്നും ലഭിച്ചു അടുത്ത പട്ടികയിലേക്ക് അതായത് അടുത്ത കണക്കുകൂട്ടൽ പ്രകിയയിലേക്ക് നമുക്ക് പോകാം ഇവിടെ ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ എനർജി ബാലൻസിൽ നിന്ന് നമുക്ക് ആർ എന്നത് ലഭിക്കും ഇത് ഈ രണ്ട് ദ്രവ്യ പ്രവാഹ നിരക്കുകളുടെ അനുപാതം ആണ് ഇവിടെ ഇതിൻ്റെ മൂല്യം 0 239 ന് തുല്യമാണ് അതായത് ഇതിൻ്റെ ഇത്രയും അളവാണ് ഈയൊരു അനുപാതം ഇതിനർത്ഥം നമുക്ക് അറിയാവുന്ന ആകെയുള്ള ദ്രവ്യ പ്രവാഹ നിരക്കിനെ ഈയൊരു അളവു കൊണ്ട് ഗുണിച്ചാൽ നമ്മൾ എത്രമാത്രം നീരാവിയാണ് പുറത്തേക്ക് എടുക്കുന്നതെന്ന് കണക്കാക്കാം ശരിയല്ലേ കൂടാതെ അപ്പോൾ നമുക്ക് താപ കാര്യക്ഷമത എത്രയെന്ന് കണ്ടെത്താം അതിനാൽ താപ കാര്യക്ഷമത എന്നതിനെ മറ്റൊരു രീതിയിലൂടെ കണക്കാക്കാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് താപ കാര്യക്ഷമത എന്നത് ഇവിടെ കാണുന്ന സമവാക്യം ഉപയോഗിച്ച് നിഷ്പ്രയാസം കണക്കാക്കാം ഈറ്റ തെർമ്മൽ ഡബ്ലിയു ടർബൈൻ ഡബ്ലിയുപമ്പ്ക്യു ബോയിലർ thermalW turbine WpumpQboiler എന്തുകൊണ്ടെന്നാൽ ഇതാണ് ബോയിലറിൽ നിന്നും നാം പുറത്തേക്ക് എടുക്കുന്ന താപോർജ്ജത്തിൻ്റെ അളവ് അതിനാൽ ഈ സമവാക്യത്തെ thermalWT WP Qboiler എന്നും എഴുതാം ഇതിൽ WT എന്നതിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ട് WT എന്നതിൽ നിന്നും തുടങ്ങി മുഴുവൻ നീരാവിയും വികസിക്കുന്നു അതിനു ശേഷം WT എന്നതു കൂടി കൂട്ടുന്നു നാം ഈ സൈക്കിൾ ഡയഗ്രത്തിലേക്ക് നോക്കിയാൽ വീണ്ടും വ്യക്തമാകുന്നത് ഇതാണ് ചെയ്യപ്പെടുന്ന പ്രവൃത്തിയെ നമുക്ക് m എന്ന് രേഖപ്പെടുത്താം മാസ്സിൻ്റെ ഒരു അളവ് വികസിക്കുന്നത് ഒന്ന് മുതൽ രണ്ട് വരെ ആണെന്നും കരുതുക അതിനാൽ അവിടെ ഈ എൻതാൽപ്പി വ്യത്യാസത്തെ m1 എന്നതു കൊണ്ട് ഗുണിക്കണം അതിനാൽ ഇതിനെ നമുക്ക് എഴുതുവാൻ സാധിക്കും ആദ്യമായി അടുത്ത സ്റ്റെപ്പ് ഇപ്രകാരം എഴുതാൻ കഴിയും m1 m3 ഇവിടെ പമ്പിൻ്റെ പ്രവൃത്തി രണ്ടെണ്ണം ഉണ്ട് Wp1 Wp2 എന്നതിലെ സംഖ്യകളെ റോമൻ അക്കങ്ങൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തിയാൽ അത് WpI WpII എന്ന് എഴുതാം ഇവിടെ P1 P2 എന്നീ രണ്ട് പമ്പുകളാണല്ലോ ഉള്ളത് അതിനാൽ നമുക്ക് അവയെ കാട്ടിത്തരുവാൻ സാധിക്കും കൂടാതെ ഇനിയുള്ളത് ബോയിലറിൻ്റെ പ്രവൃത്തി ആണ് നിങ്ങൾക്കു കാണുവാൻ സാധിക്കും ബോയിലറിൻ്റെ പ്രവൃത്തി എന്നത് ഏഴുമുതൽ ഒന്നു വരെ ആണ് അതിനാൽ നമുക്ക് എഴുതുവാൻ സാധിക്കും Q boiler h1 h7 നിങ്ങൾക്ക് കാണാം ഈ അളവുകൾ എല്ലാം തന്നെ നാം കണക്കാക്കി കഴിഞ്ഞിട്ടുള്ളവയാണ് അതിനാൽ നമുക്ക് താപകാര്യക്ഷമത എന്നതിനെ കണക്കാക്കുവാൻ സാധിക്കും എന്നാൽ ഇവിടെ മറ്റൊരു യൂണിറ്റ് കൂടിയുണ്ട് നമുക്ക് താപകാര്യക്ഷമത എന്നതിനെ 1 Qout Qin എന്നും എഴുതാൻ സാധിക്കും ഇവിടെ Qout എന്നത് കണ്ടൻസറിലെ താപ കൈമാറ്റം ആണ് ഇത് ബോയിലറിലെ താപ കൈമാറ്റം ആണ് ഇതാണ് നിങ്ങളുടെ Qin അതിനാൽ ഇത് കാര്യക്ഷമതയെ കണക്കാക്കുനതിനുള്ള ഒരു മാർഗ്ഗം കൂടി ആണ് കൂടാതെ ഇവിടെ നമുക്ക് 45 19 ശതമാനം 45 19 കാര്യക്ഷമത ഉണ്ട് അതിനാൽ കാര്യക്ഷമതയിൽ വർദ്ധന ഉണ്ടാകും അതായത് നാം ഫീഡ് വാട്ടർ ഹീറ്ററിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടെ കാര്യക്ഷമതയിൽ നിശ്ചിതമായ ഒരു വർദ്ധന ഉണ്ടാകും ഇത് ഒരു നല്ല പരിശീലനം ആയിരിക്കും അതായത് നാം ഈ പരിശീലനം ചെയ്യുക ആണെങ്കിൽ അത് ഒരു ഫീഡ് വാട്ടർ ഹീറ്റിങ്ങിനേയും പരിഗണിക്കാത്ത നല്ലൊരു പരിശീലനം ആയിരിക്കും അതിനാൽ നിങ്ങൾ അനുമാനിക്കുന്നത് മുഴുവൻ നീരാവിയും അതായത് നീരാവിയുടെ മുഴുവൻ ദ്രവ്യവും ടർബൈനിലൂടെ വികസിക്കുകയാണ് എന്നായിരിക്കും കൂടാതെ ഈ പമ്പ് പി4 ൽ നിന്നോ പി3 ൽ നിന്നോ മർദ്ദത്തെ പി1 എന്നതു വരെയോ പി7 വരെയോ ഉയർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സൈക്കിളിനെ കണക്കാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യക്ഷമത എത്രയാണ് എന്ന് നോക്കൂ അതായത് ആദ്യത്തെ ഉദാഹരണത്തിൽ റീജനറേറ്റീവ് ഫീഡ് ഹീറ്റിംഗ് ഉള്ളപ്പോൾ ഉയർന്ന കാര്യക്ഷമത നേടാൻ സാധിക്കും എങ്കിലും പ്രവൃത്തിയുടെ ഫലം അഥവാ വർക്ക് ഔട്ട്പുട്ട് എന്നത് താരതമ്യേന കുറവായിരിക്കും അതിനാൽ ഇതിലൂടെ റാങ്കിൻ സൈക്കിളിൻ്റെ പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു കൂടാതെ റാങ്കിൻ സൈക്കിളിൽ വരുത്താവുന്ന പരിഷ്ക്കാരങ്ങളെ കുറിച്ചും ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു മാത്രമല്ല റാങ്കിൻ സൈക്കിളിൻ്റെ കാര്യക്ഷമത എന്നത് എന്താണെന്നും എപ്രകാരമാണ് ഫീഡ് വാട്ടർ ഹീറ്റർ ഉപയോഗിക്കുന്നതിലൂടെ കാര്യക്ഷമതയിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുന്നത് എന്നും ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും അധികമായിട്ടുള്ള വസ്തുതകൾ കൂടി ചർച്ച ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് ഫീഡ് വാട്ടർ ഹീറ്ററുകളുടെ എണ്ണവും സ്ഥാനവും സംബന്ധിച്ചുള്ള ചില വസ്തുതകൾ അതിനാൽ ഞാൻ ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇതാണ് ഒരു യൂട്ടിലിറ്റി പവർ പ്ലാൻ്റിനെ Utility Power Plant കുറിച്ച് വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതു പോലെ ഇത് അർത്ഥമാക്കുന്നത് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഒരു വൈദ്യുത നിലയത്തിൽ അതായത് ഒരു വലിയ വൈദ്യുത നിലയത്തിൽ അനേകം ഫീഡ് വാട്ടർ ഹീറ്ററുകൾ ഉണ്ടാകും എന്നതാണ് അതിനാൽവ്യക്തമായും ഇപ്പോൾ ഫീഡ് വാട്ടർ ഹീറ്റർ എവിടെ സ്ഥാപിക്കണം എന്നതാണ് ചോദ്യം ആ പ്രത്യേക അളവിലുള്ള തീ എന്നതു കൊണ്ട് അർത്ഥമാക്കുന്നത് ഏതു മർദ്ദത്തിലാണ് നാം നീരാവിയെ വേർതിരിച്ചെടുക്കുന്നത് എന്നതാണ് ഇത് നാം എങ്ങനെ അറിയും ആദ്യത്തെ വസ്തുത എന്നത് ഫീഡ് വാട്ടർ ഹീറ്റർ അതായത് ഫീഡ് വാട്ടർ ഹീറ്റർ കൂടി ചേർക്കപ്പെടുമ്പോൾ കാര്യക്ഷത വർദ്ധിക്കുന്നു എന്നതാണ് എന്നാൽ ഒന്നു നോക്കുക ആണെങ്കിൽ ആദ്യത്തെ ഒരു ഫീഡ് വാട്ടർ ഹീറ്റർ ഘടിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന കാര്യക്ഷമതയുടെ വർദ്ധനയിലെ വർദ്ധനവ് എത്രയെന്ന് നമുക്ക് കാണാൻ സാധിക്കും അടുത്ത ഒരു ഫീഡ് വാട്ടർ ഹീറ്റർ കൂടി വയ്ക്കുമ്പോൾ ഈ കാര്യക്ഷമതയുടെ വർദ്ധനയിലെ വർദ്ധനവ് എന്നത് കുറവായിരിക്കും അതിനാൽ ഇത് സുപ്രധാനമാണ് എന്ന് എഴുതുവാൻ എനിക്കു സാധിക്കും ഫീഡ് വാട്ടർ ഹീറ്ററുകൾ ഘടിപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന കാര്യക്ഷമതയുടെ വർദ്ധനയിലെ വർദ്ധനവ് എന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അതായത് ഫീഡ് വാട്ടർ ഹീറ്ററുകൾ ഘടിപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്ന കാര്യക്ഷമതയുടെ വർദ്ധനയിലെ വർദ്ധനവ് എന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അതിനാൽ ഇത് അപ്രകാരം ആണെങ്കിൽ നാം ഫീഡ് വാട്ടർ ഹീറ്റർ കൂടി ഘടിപ്പിക്കുമ്പോൾ നമുക്ക് അധികമായി പൈപ്പ്ലൈൻ ഉണ്ടാകുന്നു നമുക്ക് അധികമായി പമ്പുകൾ ഉണ്ടാകുന്നു മാത്രമല്ല ഫീഡ് വാട്ടർ ഹീറ്റർ പോലെ ഉള്ള ഒരു ഉപകരണത്തെ കൂടി നമുക്ക് അധികമായി ലഭ്യമാകുന്നു അതിനാൽ ഈ വസ്തുക്കൾ എല്ലാം കൂടി പമ്പ് പ്ലാൻ്റിൻ്റെ സങ്കീർണ്ണത വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല എപ്പോളെല്ലാം ഒരു പൈപ്പ് ലൈനിനെ അധികത്തിൽ ചേർക്കേണ്ടതായി വരുന്നുവോ അഥവാ ഏതെങ്കിലും തരത്തത്തിലുള്ള ഒരു പമ്പ് ഉപകരണത്തെ അധികമായി ഉൾപ്പെടുത്തേണ്ടതായി വരുന്നുവോ അപ്പോളെല്ലാം നഷ്ടങ്ങളും വർദ്ധിക്കുന്നു അതിനാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത് നമുക്കു ലഭിക്കുന്നത് കാര്യക്ഷമതയുടെ വർദ്ധനവിൽ സംഭവിക്കുന്ന കുറവും ഒപ്പം നഷ്ടങ്ങളിലുണ്ടാക്കുന്ന വർദ്ധനവും കുറേ അളവിലുളള ഇർറിവേഴ്സിബിളിറ്റിയും ആണ് അതിനാൽ നമുക്ക് എവിടെ എങ്കിലും ഒരു അവസാനം വേണമല്ലോ അതിനാൽ ഫീഡ് വാട്ടർ ഹീറ്ററുകളുടെ എണ്ണം ഒരു പരിധിയ്ക്ക് അപ്പുറം അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുവാൻ നമുക്ക് സാധ്യമല്ല അതിനാൽ ഞാൻ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം ഇതാണ് പ്ലാൻ്റിൻ്റെ വലുപ്പത്തെയും സൈക്കിളിൻ്റെ പ്ലാൻ്റിലെ പ്രവർത്തന സാഹചര്യത്തെയും ആശ്രയിച്ച് ഒരു പരിമിതി ഉണ്ട് ഫീഡ് വാട്ടർ ഹീറ്ററിൻ്റെ എണ്ണം തിരഞ്ഞെടുക്കേണ്ടത് നാം തന്നെ ആണ് എന്നാൽ ആറോ ഏഴോ എട്ടോ ഫീഡ് വാട്ടർ ഹീറ്ററുകൾ എന്നത് വലിയതും സുപ്രധാനവുമായ ഒരു പ്ലാൻ്റിനെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായ കാര്യമല്ല അതിനാൽ ധാരാളം ഫീഡ് വാട്ടർ ഹീറ്ററുകൾ ഉപയോഗിക്കപ്പെടുന്നു തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ അത് പ്ലാൻ്റിൻ്റെ വലുപ്പത്തെ ആശ്രയിച്ചിരിക്കും കൂടാതെ പ്രവർത്തന സാഹചര്യത്തെയും ആശ്രയിച്ചിരിക്കും പ്രവർത്തന സാഹചര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ടർബൈനിൻ്റെ ആദ്യ ഘട്ടത്തിലേക്ക് നീരാവിയെ എത്തിക്കുന്ന ആ ഒരു മർദ്ദത്തെ തന്നെയാണ് അതിനാൽ അത് എണ്ണവുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ നമുക്ക് പറയാം എങ്ങനെയെങ്കിലും ഒക്കെ നാം എണ്ണം തീരുമാനിച്ചുവെന്ന് പിന്നെ ഫീഡ് വാട്ടർ ഹീറ്ററിൻ്റെ സ്ഥാനം എങ്ങനെ നിർണ്ണയിക്കും അല്ലെങ്കിൽ ടർബൈനിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സ്ഥലം എങ്ങനെ നിർണ്ണയിക്കും വേർതിരിച്ചെടുക്കുന്ന സ്ഥലം അഥവാ എക്സ്ട്രാക്ഷൻ പോയിൻ്റ് എന്നാൽ എന്തെന്ന് നോക്കാം ഇത് ഒരു ടർബൈനാണ് ബോയിലറിൽ നിന്ന് ഉയർന്ന മർദ്ദമുള്ള നീരാവി ഇവിടേക്കു വരുന്നു ഇവിടെ ആത്യന്തികമായി അത് കണ്ടൻസറിലേക്ക് പോകുന്നു നമുക്ക് ഒന്നാമത്തെ എക്സ്ട്രാക്ഷൻ പോയിൻ്റ് ലഭിച്ചു എന്ന് പറയാം ഇതിനെ ഞാൻ ഇ 1 എന്നു സൂചിപ്പിക്കുന്നു തുടർന്ന് എനിക്ക് ഇ 2 ലഭിച്ചു അങ്ങനെ അങ്ങനെ എനിക്ക് ഇ എൻ വരെയും ലഭിച്ചു അതായത് എൻ എണ്ണം എക്സ്ട്രാക്ഷൻ പോയിൻ്റുകൾ ലഭിച്ചു ഇതിനിടയിൽ p1 p2 തുടങ്ങി pn വരെയുള്ള p1 p2 pn മർദ്ദങ്ങൾക്ക് അനുബന്ധമായി എനിക്ക് മറ്റ് എക്സ്ട്രാക്ഷൻ പോയിൻ്റുകളും ലഭിച്ചു അതിനാൽ ഒരു നല്ല പ്ലാൻ്റിൻ്റെ രൂപകൽപ്പനയ്ക്കായി p1 p2 എന്നിങ്ങനെ pn വരെ ഉള്ളവയെ കുറിച്ച് ഞാൻ തീരുമാനം എടുക്കേണ്ടത് എപ്രകാരമാണ് അതായത് അനുമാനത്തിലേക്ക് പോകാതെ തന്നെ ഇത് നമുക്ക് ഊഹിക്കുവാൻ കഴിയും അതായത് അനുമാനങ്ങളിലേക്ക് പോകാതെ തന്നെ ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് അല്ലെങ്കിൽ എത്രമാത്രം ആശയപരമായി ഇത് ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ വിശദീകരിക്കാം നമുക്ക് പറയാം ഇതാണ് എൻ്റെ സ്റ്റീം പവർ സൈക്കിൾ എന്ന് കൂടാതെ ഈ വശം റ്റി ആണെന്നും ഈ വശം എസ് ആണെന്നും നമുക്ക് പറയാം ആസൂത്രിതമായി ഇത് സൈക്കിളിനെ കാട്ടിത്തരുന്നു കൂടാതെ ഇവിടെ വ്യത്യസ്തമായി അതായത് ഓപ്പൺ ഫീഡ് വാട്ടർ ഹീറ്ററിന് വേണ്ടി മാത്രമായി നാം ഇതിനെ കാണിക്കുന്നുവെന്ന് പറയാം അപ്രകാരം ചെയ്യുന്നത് ഇതിനെ മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രം ആണ് അതിനാൽ നിങ്ങൾക്ക് കാണാം കണ്ടൻസേറ്റിനെ ഈ അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് ചൂടാക്കേണ്ടതുണ്ട് എന്ന് കൂടാതെ ഇതിൽ നിന്നും കണ്ടൻസേറ്റ് ഇത്ര മാത്രം ചൂടാക്കപ്പെടുന്നത് ബോയിലറിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് ഇതാണ് ബോയിലറിൽ നിന്നുള്ള താപ കൈമാറ്റം ബാക്കി ഉള്ളതു വരുന്നത് ഫീഡ് വാട്ടർ ഹീറ്ററിൽ നിന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് എൻ ഫീഡ് വാട്ടർ ഹീറ്ററുകൾ ലഭിച്ചു കഴിഞ്ഞു എന്നാണ് അതായത് എൻ എണ്ണം ഫീഡ് വാട്ടർ ഹീറ്ററുകൾ അതിനാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കണ്ടൻസേറ്റ് വരുന്നത് T എന്ന താപനിലയിൽ നിന്നാണ് എന്ന് നമുക്ക് പറയാം അങ്ങനെയെങ്കിൽ ബോയിലറിലെ മർദ്ദത്തിൽ നീരാവിയുടെ ഉല്പാദനം നടക്കുന്ന താപനിലയിലേക്ക് ഞാൻ അതിനെ ഉയർത്തേണ്ടതുണ്ട് അതിനാൽ ബോയിലറിലെ മർദ്ദത്തിന് അനുസൃതമായുള്ള പരിപൂർണ്ണമായ താപനിലയും എനിക്കറിയാം കണ്ടൻസേറ്റിൻ്റെ താപനില ∆T അളവിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് പറയാം ഇവിടെ ∆T എന്നത് കണ്ടൻസേറ്റിൻ്റെ താപനിലയിൽ വരുത്തുന്ന വർദ്ധനവാണ് അതിനാൽ ഏകദേശ വിശകലനത്തിലൂടെ ഇതിനെ ∆T n1 എന്ന് രേഖപ്പെടുത്തുവാൻ സാധിക്കും അതായത് ഏകദേശ വിശകലനത്തിലൂടെ ഇതിനെ ∆T n1 എന്ന് കാണിക്കാനാകും അതിനാൽ അളവ് എന്നത് ഇതാണ് ഇതിനെ നമുക്ക് X എന്നു വിളിക്കാം അതിനാൽ ഇവിടെ ഓരോ ഫീഡ് വാട്ടർ ഹീറ്ററും കാരണം X അളവിലുളള വർദ്ധനവ് താപനിലയിൽ ഉണ്ടാകും അഥവാ ഉണ്ടാകണം അതായത് ഓരോ ഫീഡ് വാട്ടർ ഹീറ്ററും മൂലം ഞാൻ ഈ കണ്ടൻസേറ്റിൻ്റെ താപനില X അളവിൽ വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ അതായത് X എന്നത് ∆T n1 ആണ് എങ്കിൽ അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് ഇതിനെ ∆Tn1 X എന്ന് നമുക്ക് എഴുതാം കൂടാതെ ∆T എന്നത് കണ്ടൻസേറ്റിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന ആകെ വർദ്ധന ആണ് ഇത് കണക്കാക്കാനായി ആദ്യം എക്സ് എന്നതിനെ എൻ കൊണ്ട് ഗുണിക്കുന്നു ഇത് എൻ എണ്ണം ഫീഡ് വാട്ടർ ഹീറ്ററുകൾ കാരണം കണ്ടൻസേറ്റിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന വർദ്ധന ആണ് ഇതിനു പുറമേ താപനിലയിൽ എക്സ് അളവിലുള്ള വർദ്ധനവ് ഇക്കണോമൈസറിനാലും ലഭിക്കുന്നു അതിനാലാണ് ആകെയുള്ള വർദ്ധനവ് ∆T കണക്കാക്കാനായി എക്സ് എന്നതിനെ n കൊണ്ട് ഗുണിക്കുന്നതിന് പകരം n1 കൊണ്ട് ഗുണിക്കുന്നത് അതിനാൽ അടിസ്ഥാനപരമായി നാം എന്താണ് ചെയ്തത് ഫീഡ് വാട്ടർ ഹീറ്ററുകളെ രംഗത്ത് ഇറക്കിയത് വഴി ഇക്കണോമൈസറിൽ നിന്നുള്ള താപത്തിൻ്റെ ആവശ്യകതയെ കുറയ്ക്കുകയാണ് നാം ചെയ്തത് ഇപ്പോൾ എൻ എണ്ണം ഫീഡ് വാട്ടർ ഹീറ്ററുകൾ ഉപയോഗിക്കുവാൻ നാം തീരുമാനിച്ചു ഓരോ ഫീഡ് വാട്ടർ ഹീറ്ററുകളും താപനിലയിൽ നൽകുന്നത് എക്സ് അളവിലുള്ള വർദ്ധനവ് ആണ് അതായത് എക്സ് ഡിഗ്രി അളവിലുള്ള വർദ്ധനവ് കൂടാതെ ഇക്കണോമൈസറും എക്സ് ഡിഗ്രി അളവിലുള്ള വർദ്ധനവ് താപനിലയിൽ നൽകുന്നു അതിനാൽ ഇതിനെ പ്രായോഗിക തലത്തിലുള്ള അനുഭവസമ്പത്തിലൂടെ ഉരുത്തിരിഞ്ഞ ഒരു നിയമമായി അതായത് തമ്പ് റൂൾ ആയി കണക്കാക്കിയാൽ ഒരാൾക്ക് നീരാവിയെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന മർദ്ദം എത്രയെന്ന് നിർണ്ണയിക്കാനാകും അതിനാൽ ഈ നിയമം ഉപയോഗിച്ച് നീരാവിയെ വേർതിരിച്ചെടുക്കുന്ന അഗ്രങ്ങളിൽ ഉള്ളതായ ആ ഒരു മർദ്ദത്തെ കണക്കാക്കാൻ സാധിക്കും അതിനാൽ സാധാരണഗതിയിൽ ഇത് നല്ല ഒരു രൂപകൽപ്പനയേയും ഊർജ്ജത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള ഉപയോഗത്തേയും പ്രദാനം ചെയ്യുന്നു കൂടാതെ മറ്റുതരത്തിലുള്ള പ്ലാൻ്റുകളേയും പ്ലാൻ്റുകളുടെ പരിമിതികളേയും കൂടി പരിഗണിക്കുമ്പോൾ തീർച്ചയായും അതു തന്നെയാണ് നാം പിന്തുടർന്നതും അതിനാൽ സാധാരണഗതിയിൽ ബാഷ്പ വൈദ്യുത നിലയങ്ങളുടേയും ബാഷ്പ വൈദ്യുത സൈക്കിളുകളുടേയും രൂപകല്പനയിൽ നാം പിന്തുടർന്ന് പോരുന്നതും ഈയൊരു രീതി തന്നെയാണ് ഇതോടു കൂടി റീജനറേറ്റീവ് ഫീഡ് ഹീറ്റിംഗ് സൈക്കിളിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം എല്ലാ പ്രായോഗിക സൈക്കിളുകളിലും റീജനറേറ്റീവ് ഫീഡ് ഹീറ്റിംഗ് ഉണ്ടാകും കൂടാതെ റീജനറേറ്റീവ് ഫീഡ് ഹീറ്റിംഗ് എന്നത് മികച്ച രീതിയിൽ ഊർജ്ജത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിൻ്റെ നല്ലൊരു ഉദാഹരണം കൂടിയാണ് അതിനാൽ ഈ ചർച്ചയിലൂടെ നാം ശ്രമിച്ചതും തുടർന്നുള്ള തുടർന്നുള്ള ചർച്ചയിൽ ശ്രമിക്കുവാൻ പോകുന്നതും സ്റ്റീം പവർ പ്ലാൻ്റിനെക്കുറിച്ച് ഏതാനും വസ്തുതകൾ എടുത്ത് വിശദീകരിക്കുവാനാണ് അതിനു ശേഷം നമുക്ക് മറ്റൊരു പവർ സൈക്കിളിലേക്ക് പോകുകയും ചെയ്യാം